എനർജി കൺസെർവഷന്റെയും വേസ്റ്റ് ഹീറ്റ് റിക്കവറിയുടെയും അടുത്ത പ്രഭാഷണത്തിലേക്ക് സ്വാഗതം അതിനാൽ ഇന്ന് നമ്മൾ എനർജി കൺസെർവഷനെക്കുറിച്ചുള്ള നമ്മളുടെ ചർച്ച തുടരും പ്രത്യേകിച്ച് മെക്കാനിക്കൽ എനർജി സ്റ്റോറേജ് ടെക്നോളജീസ്mechanical എനർജി storage technology കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഫ്ലൈ വീലുകളെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുന്നു ശരി അപ്പോൾ എന്താണ് ഫ്ലൈ വീൽ ആരംഭിക്കുന്നതിന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്തനാൽ ഈ ലിങ്കിൽ നിന്ന് ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ പോകുന്നു തുടർന്ന് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഫ്ലൈ വീൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾ സംസാരിക്കും തുടർന്ന് എന്താണ് ഫ്ലൈ വീൽ എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും എനർജി സ്റ്റോറേജ് ഫ്ലൈ വീലുകൾക്ക് ഉയർന്ന പെർഫോമൻസ് ഉണ്ട് അവ ലളിതമായ പ്രിൻസിപിളിൽ പ്രവർത്തിക്കുന്നു അവരുടെ പ്രവർത്തനം മനസിലാക്കാൻ ഇലക്ട്രിക് മോട്ടോർ ജനറേറ്റർ ഉപയോഗിച്ച് ആരംഭിക്കുന്നതാണ് നല്ലത് ഒരു ഇലക്ട്രിക് മോട്ടോറും ജനറേറ്ററും യഥാർത്ഥത്തിൽ വിപരീത ദിശകളിൽ പ്രവർത്തിക്കുന്ന ഒരേ മെഷീൻനാണ് നിങ്ങൾ ഒരു മോട്ടോർ ജനറേറ്ററിൽ വൈദ്യുതോർജ്ജം ഇടുമ്പോൾ അത് സ്പിന്നിംഗ് ഷാഫ്റ്റിൽ മെക്കാനിക്കൽ എനെർജിയായി മാറുന്നു അതൊരു മോട്ടോർ ആണ് ഷാഫ്റ്റ് സ്പിന്നിംഗ് ചെയ്ത് മോട്ടോർ ജനറേറ്ററിലേക്ക് മെക്കാനിക്കൽ എനർജി നൽകുമ്പോൾ നിങ്ങൾക്ക് വൈദ്യുതോർജ്ജം തിരികെ എടുക്കാം എനർജി സ്റ്റോറേജ് ഫ്ലൈ വീലിനുള്ള ജനറേറ്ററാണിത് നമ്മൾ ഒരു മോട്ടോർ ജനറേറ്റർ ഒരു ചക്രം വരെ ഹുക്ക് ചെയ്യുന്നു നമ്മൾ മോട്ടോർ ജനറേറ്ററിലേക്ക് വൈദ്യുതോർജ്ജം നൽകുമ്പോൾ അത് വീലിൽ ആ എനർജി സംഭരിക്കുന്ന വീലിനെ ത്വരിതപ്പെടുത്തുന്നു നമുക്ക് വൈദ്യുതി തിരികെ ലഭിക്കണമെങ്കിൽ സ്പിന്നിംഗ് വീലിന്റെ മോമെന്റും വാക്ക്കത്തിലും വളരെ നല്ല ബെയറിംഗുകളിലും ഫ്ലൈ വീലിനെ ഡ്രൈവ് ചെയ്യാൻ അനുവദിക്കുന്നു കാലക്രമേണ നമുക്ക് കൂടുതൽ എനർജി നഷ്ടപ്പെടുന്നില്ല വളരെ കുറഞ്ഞ ചെലവിൽ എനർജി സ്റ്റോറേജ് ഫ്ളൈ വീലുകൾ നിർമ്മിക്കാനുള്ള പുതിയ മാർഗം വെൽകെസ് കണ്ടുപിടിച്ചു അതിനാൽ ഒരു ഫ്ലൈ വീൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ആ വീഡിയോ നന്നായി പകർത്തിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു ഫ്ലൈ വീൽ കാണാൻ കഴിയുന്നത് പോലെ നമുക്കറിയാവുന്നതുപോലെ അത് ഒരു റൊറ്റേറ്റ് ചെയ്യുന്ന അംഗമാണ് കൂടാതെ എക്സ്റ്റർനാൽ എനർജി ഉപയോഗിച്ച് തിരിക്കാൻ കഴിയുന്ന ഒരു ഷാഫ്റ്റ് ഉപയോഗിച്ച് കൈനറ്റിക് എനർജിയുടെ രൂപത്തിൽ സംഭരിച്ചിരിക്കുന്നു കൈനറ്റിക് എനർജി പിന്നീട് വീണ്ടെടുക്കാൻ കഴിയും അതിനാൽ അത് ഒരു ജനറേറ്ററുമായി ബന്ധിപ്പിച്ച് അത് ജനറേറ്റർ റൊറ്റേറ്റ് ചെയുന്നു അതാണ് നമ്മൾ അവിടെ കണ്ടത് അതിനാൽ ഫ്ലൈ വീൽന്റെ സ്കീമാറ്റിക് ഒരു റോറ്റേറ്റിങ് ഉപകരണം കാണിക്കുന്നു എന്താണ് സംഭവിക്കുന്നതെന്നാൽ അത് ഒരു മോട്ടോർ ജനറേറ്റർ സെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ശരി അത് അതെ മെഷീൻനാണ് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അത് ഒരു മോട്ടോറായും ജനറേറ്ററായും പ്രവർത്തിക്കും നമ്മൾ യഥാർത്ഥത്തിൽ വൈദ്യുതിയുടെ രൂപത്തിൽ എക്സ്റ്റർനാൽ എനർജി നൽകുമ്പോൾ അത് ഒരു മോട്ടോറായി പ്രവർത്തിക്കുകയും അത് ഫ്ലൈ വീലിലേക്ക് എനർജി നൽകുകയും ഫ്ളൈ വീൽ റൊറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു തുടർന്ന് എങ്ങനെയെങ്കിലും ഫ്ളൈ വീലിന്റെ ഈ റൊറ്റേറ്റിങ് മോഷൻ നിലനിർത്താൻ കഴിയുമെങ്കിൽ റൊറ്റേറ്റിങ് മോഷനും കൈനറ്റിക് എനെർജിയും പിന്നീട് അത് ഉപയോഗിക്കും റോറ്റേറ്റിങ് മോഷൻ കാരണം അത് ഒരു ജനറേറ്ററുമായി ബന്ധിപ്പിക്കുക അപ്പോൾ നമുക്ക് അതിൽ നിന്ന് വൈദ്യുതി വേർതിരിച്ചെടുക്കാൻ കഴിയും ശരി ഇപ്പോൾ നമ്മൾ ഒരു മോട്ടോറോ ജനറേറ്ററോ ഉപയോഗിക്കുന്നതിനാൽ ഫ്ലൈ വീലിലേക്കുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും എസി അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് കറന്റ്ആൾന്റെര്നാറിംഗ് current രൂപത്തിലായിരിക്കണം നിങ്ങൾക്ക് അന്തിമ ഔട്ട്പുട്ട് ഡിസിയുടെ രൂപത്തിലോ നമ്മളുടെ ഇൻപുട്ട് ഇലക്ട്രിസിറ്റി ഡിസിയുടെ രൂപത്തിലോ ലഭിക്കണമെങ്കിൽ നമ്മൾക്ക് ഒരു ഇൻവെർട്ടറോ റക്റ്റിഫയറോ ആവശ്യമായി വരും അതിനാൽ ഇതാണ് പ്രധാനമായും ഒരു ഫ്ലൈ വീൽ അതിനാൽ നമുക്ക് ഫ്ലൈ വീലിനെ കുറിച്ചുള്ള ചില പോയിന്റുകൾ വേഗത്തിൽ എഴുതാം ഫ്ലൈ വീൽനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത ചില പോയിന്റുകൾ ഞാൻ ഇവിടേ എഴുതാൻ പോകുകയാണ് കൈനറ്റിക് എനെർജിയുടെkinetic എനർജിയുടെ രൂപത്തിൽ എനർജി സംഭരിക്കുന്നു ഇത് തീർച്ചയായും തിരക്കില്ലാത്ത സമയങ്ങളിൽ ആയിരിക്കും സംഭരിച്ച എനർജി ഒരു ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനായി പുറത്തുവിടുന്നു ഇത് തിരക്കുള്ള സമയത്താണ് വ്യക്തമല്ലേ അതിനാൽ ഇതാണ് നമ്മൾ കണ്ടത് അതിനാൽ ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചില ദ്രുത കണക്കുകൂട്ടലുകൾ നടത്തണമെങ്കിൽ അതിനാൽ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക് ഇത് വരയ്ക്കാം എനിക്ക് എംജി സെറ്റ് ഉണ്ട് തീർച്ചയായും ഇത് ഓഫ് പീക്ക് സമയത്താണ് ചുവപ്പ് പീക്ക് സമയത്താണ് എനിക്ക് ഒരുതരം ക്ലച്ചിംഗ് മെക്കാനിസം ഉണ്ടായിരിക്കും തുടർന്ന് എനിക്ക് ഇത് എഫ് ഉണ്ട് ഇത് ഞാൻ Ek എന്ന് എഴുതുന്നു അത് 12 ആയിരിക്കും ω2 ഇവിടെ ω എന്നത് റോറ്റേറ്റിങ് സ്പീടാണ് ആന്ഗുലർ സ്പീഡ് സെക്കൻഡിൽ അതിന്റെ യൂണിറ്റ് റേഡിയൻസ് എത്രയാണ് I എന്താണ് I മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് റൊറ്റേറ്റിങ് ഡിസ്കിന് അത് 12 M r2 ആയിരിക്കും അതിനാൽ ഇതാണ് ഞാൻ ഇവിടെ സ്ലൈഡിലെ ഫ്ലൈ വീൽ കണക്കുകൂട്ടലുകളിലും കാണിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പോലെ നമുക്ക് ഒരു സിലിണ്ടറിനു കൈനറ്റിക് എനർജി 12 I ω2 ഉണ്ട് അതിനാൽ ഒരു സോളിഡ് സിലിണ്ടറിനോ ഡിസ്കിലോ ഇത് 12 M ω2 ആണ് ഇവിടെ M എന്നത് ഫ്ലൈ വീലിന്റെ മസ്സാണ് അതിനാൽ നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണുന്ന ചില പോയിന്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ധാരാളം എനർജി സംഭരിക്കണമെങ്കിൽ എനിക്ക് അത് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്ന് അംഗുലർ സ്പീഡ് വർദ്ധിപ്പിച്ചാണ് അതിനാൽ Ek എന്നത് ω2 ന് ആനുപാതികമാണ് I ന് ആനുപാതികമാണ് അതിനാൽ നമുക്ക് ധാരാളം എനർജി സംഭരിക്കണമെങ്കിൽ നമുക്ക് ഉയർന്ന ω ആവശ്യമുണ്ട് നമുക്ക് ഉയർന്ന I ആവശ്യമുണ്ട് വ്യക്തമല്ലേ ഇപ്പോൾ ഉയർന്ന ωക്ക് അത് നല്ലതാണ് അതിനാൽ നിങ്ങൾക്ക് ഉയർന്ന ω വേണമെങ്കിൽ എന്ത് സംഭവിക്കും നല്ല കാര്യം ഇത് ω2 ആയി പോകുന്നു എന്നിരുന്നാലും നിങ്ങൾക്ക് വളരെ വലിയ ഫ്ലൈ വീൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യമില്ല അത് സഹായിക്കില്ല നമ്മൾ ക്ക് വളരെ വലിയ ഫ്ലൈ വീൽ ഇല്ലായിരുന്നു ഇത് ഭാരം കുറഞ്ഞതായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വർദ്ധിപ്പികണമെങ്കിൽ എനിക്ക് ഒന്നുകിൽ ഉയർന്ന മാസ്സ് അല്ലെങ്കിൽ ഉയർന്ന റെഡിസ് ആവശ്യമാണ് അതായത് ഭാരമേറിയ മെറ്റീരിയൽ അല്ലെങ്കിൽ വളരെ വലിയ ഫ്ലൈ വീൽ ഇവ രണ്ടും നമ്മൾക്ക് വളരെ വലിയ ഫ്ലൈ വീൽ ആവശ്യമില്ലെന്ന് നമ്മൾ പറയുന്നതിന് വിരുദ്ധമാണ് അതുകൊണ്ട് നമുക്ക് എന്തുചെയ്യാൻ കഴിയും അതിനാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് I ω2 എന്നത് ഒരു ഡിസ്കിന്റെയോ സിലിണ്ടറിനോ വേണ്ടിയുള്ളതാണെന്ന് പറയുക എന്നിരുന്നാലും സോളിഡ് ഡിസ്കിന് പകരം എന്റെ പക്കലുള്ളത് സൈക്കിൾ വീലിന്റെ സ്പോക്കുകൾ പോലെയുള്ള അനുലർ ഡിസ്ക് ആണെന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുന്നുവെങ്കിൽ ശരിയാണ് മനസ്സിന്റെ ഭൂരിഭാഗവും ചുറ്റളവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു തുടർന്ന് സൈക്കിൾ ചക്രത്തിന്റെ സ്പോക്കുകൾ സൈക്കിളിന്റെ ചക്രം പോലുള്ള ചില നേർത്ത അംഗങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അതിനെ ഹബിലേക്ക് ബന്ധിപ്പിക്കുന്നു ഇത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഫ്ലൈ വീൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇപ്പോൾ കണ്ടത് ഇത് ഇതുപോലെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നു അതിനാൽ മാസ്സ്ന്റെ ഭൂരിഭാഗവും ചുറ്റളവിൽ കേന്ദ്രീകരിച്ചു തീർച്ചയായും ഒരു സെൻട്രൽ ഹബ് ഉണ്ടായിരുന്നു തുടർന്ന് ഇതുപോലുള്ള ബന്ധിപ്പിക്കുന്ന വടികൾ ഉണ്ടായിരുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ M r2 പകുതിയല്ല അതിനാൽ ഇതാണ് അതിനാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഒരു മെക്കാനിക്സിൽ നിന്ന് ഓർക്കുന്നത് പോലെയാണ് ഇത് പിണ്ഡത്തിന്റെ ഒരു അവിഭാജ്യമായ ഓവർ ആയി കണക്കാക്കുന്നു അതായത് ഇത് 0 മുതൽ r വരെയുള്ള r dM പോലെയാണ് പിണ്ഡത്തിന്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നതിനാൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ വശത്ത് അത് M r2 ആയി വരുന്നു വ്യക്തമല്ലേ അതിനാൽ നമ്മൾ ഇത് ചെയ്താൽ പിണ്ഡമോ ആരമോ വർദ്ധിപ്പിക്കാതെ എന്താണ് സംഭവിക്കുന്നത് ഞാൻ നേരിട്ട് എന്റെ നിഷ്ക്രിയ നിമിഷം ഇരട്ടിയാക്കി അതിനാൽ ഞാൻ ചുറ്റളവിലാണ് ഇത് സാധ്യമാണ് ശരി അതിനാൽ അത് നിങ്ങൾക്ക് കഴിയും എന്നാണ് ഞാൻ പറയുന്നത് അതിനാൽ ഉയർന്ന എനർജി സംഭരിക്കുന്നതിന് നമ്മൾ ω വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ചുറ്റളവിലേക്ക് കൂടുതൽ മാസ്സ് കണ്ടെത്തി ജഡത്വത്തിന്റെ നിമിഷം വർദ്ധിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഏത് തരത്തിലുള്ള ω അല്ലെങ്കിൽ അംഗുലർ സ്പീഡ് യെക്കുറിച്ചാണ് നമ്മൾ rpm നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്ലൈ വീലുകൾക്ക് ഏകദേശം 30000 50000 ൽ പോലും എളുപ്പത്തിൽ റൊറ്റേറ്റ് കഴിയും യഥാർത്ഥത്തിൽ ചില ലാബ് സ്കെയിൽ പരീക്ഷണങ്ങളിൽ 100000 rpm ൽ പോലും വളരെ ഉയരത്തിൽ ഫ്ലൈ വീൽ ഓടുന്നതിന്റെ ഒരു പ്രകടനം നടന്നിട്ടുണ്ട് അതിനാൽ ഫ്ലൈ വീലുകൾ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ഇത് എനർജി സംഭരിക്കുന്നത് ഇങ്ങനെയാണ് അതിനാൽ നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ഭാരം കുറഞ്ഞ മാസ്സും ഉയർന്ന ടെൻസൈൽ ശക്തിയുമുള്ള വസ്തുക്കൾ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചേക്കാം ഉദാഹരണത്തിന് കാർബൺ ഫൈബർ കൊണ്ട് ശക്തിപ്പെടുത്തിയ വസ്തുക്കൾ എന്തുകൊണ്ടാണ് ലൈറ്റും മാസ്സും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇത് വളരെ വലുതായിരിക്കേണ്ട ആവശ്യമില്ല കാരണം മെക്കാനിക്കൽ പരിഗണനയിൽ നിന്ന് ഓർക്കുക നിങ്ങൾ ഈ ഫ്ലൈ വീൽ അതേ സ്ഥാനത്ത് പിടിക്കുകയും അത് തിരിയുകയും വേണം ബെയറിംഗുകളെക്കുറിച്ചും മറ്റും നിങ്ങൾ ചിന്തിക്കണം അതിനാൽ ഭാരം കുറഞ്ഞ ഫ്ലൈ വീൽ എല്ലായ്പ്പോഴും നല്ലതാണ് നിങ്ങളുടെ മാസ്സ് അൽപ്പം കുറഞ്ഞാലും നമുക്ക് ചെയ്യാനാവും കഴിഞ്ഞ ബുള്ളറ്റുകളിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ആ മെസ്സനെ നമുക്ക് കേന്ദ്രീകരിക്കാം അതോടൊപ്പം ചുറ്റളവിൽ കേന്ദ്രീകരിച്ച് ഉയർന്ന അംഗുലർ സ്പീഡ് യിലേക്ക് പോകാം അത് സാധ്യമാണെന്ന് ഞാൻ പറഞ്ഞു ശരി എന്തുകൊണ്ട് ഉയർന്ന ടെൻസൈൽ ശക്തി ആവശ്യമാണ് ഉയർന്ന ടെൻസൈൽ ശക്തി ആവശ്യമാണ് കാരണം നമ്മൾ വളരെ ഉയർന്ന ആർപിഎമ്മിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ റേഡിയൽ ദിശയിൽ വളരെ ഉയർന്ന സെന്ററിഫുഗൽ ഫോഴ്സ് മെറ്റീരിയലൽ ഈ ഉയർന്ന സമ്മർദ്ദങ്ങളെ നേരിടാൻ കഴിയുന്നത്ര ശക്തമായിരിക്കണം അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആവശ്യമാണ് അതിനാൽ ഒരു ഫ്ലൈ വീൽ നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പ്രധാനമാണ് മറ്റെന്താണ് പ്രധാനം നമ്മൾ അതിലേക്ക് വരും അതിനുമുമ്പ് നമുക്ക് ഈ എനർജി സ്റ്റോറേജ് കണക്കുകൂട്ടലുകളിൽ ചിലതിനെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ ഫ്ളൈ വീൽ ആദ്യം N1 ൽ പ്രവർത്തിച്ചിരുന്നു തുടർന്ന് N2 ലേക്ക് അക്സെലിറേറ്റ് ചെയുന്നു ഇത് തിരക്കില്ലാത്ത സമയത്താണ് അപ്പോൾ എന്താണ് അധിക എനർജി സംഭരിക്കുന്നത് അല്ലേ ഇത് 12 I ω22 ω12 വ്യക്തമല്ലേ ഇപ്പോൾ എന്താണ് ω 2 π N N എന്നത് സെക്കറ്റിലേ റെവോല്യൂഷൻ അല്ലെങ്കിൽ 2 π f ഫ്രക്വൻസി എന്ന് ഓർക്കുക ഇത് rpm ആണെങ്കിൽ N എന്നത് rpm ആണെങ്കിൽ അത് 60 ബൈ N ആയിരിക്കും അതിനാൽ N എന്നത് ഒരു സെക്കൻഡിൽ റെവോല്യൂഷൻ ആണ് rpm അല്ല അതിനാൽ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനാൽ ഞാൻ എഴുതുന്നത് ½ M r2 ആണ് തുടർന്ന് ഇത് 2 π N22 2 π N12 ആയിരിക്കും അതിനാൽ എനിക്ക് ഇത് 2 π2 M r2 N22 N 2 എന്ന് എഴുതാം അതിനാൽ സ്ലൈഡിലും ഞാൻ എഴുതിയത് ഇതാണ് അതിനാൽ ഇത് എന്റെ എനർജി സംഭരണനമാണ് തിരക്കില്ലാത്ത സമയങ്ങളിൽ ഞാൻ ഫ്ലൈ വീൽ തിരിക്കുകയും ω1 ന്റെ അംഗുലർ സ്പീഡ്ൽ നിന്ന് ω2 വരെ അക്സെലെരേറ്റ് ചെയുകയും ചെയുന്നു ഇപ്പോൾ ഒരിക്കൽ ഞാൻ അത് എനെർജിയസഡ് ചെയ്താൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് ഈ എനർജി സംഭരിക്കേണ്ടതുണ്ട് എന്നാൽ എന്താണ് പ്രശ്നങ്ങൾ എനിക്ക് അത് സംഭരിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഫ്ലൈ വീൽ കറങ്ങിക്കൊണ്ടിരിക്കണം വേഗത കുറയ്ക്കരുത് ഇപ്പോൾ അത് സാധ്യമാണോ ഇത് സാധ്യമല്ല കാരണം അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എയർ ഫ്രിക്ഷൻ ഉണ്ടാകുകയും അത് വേഗത കുറയുകയും ചെയ്യും ഫ്ലൈ വീൽ വിശ്രമിക്കുന്ന മെക്കാനിക്കൽ ബെയറിംഗുകളും ഉണ്ട് അത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു അതിനാൽ ചില ബെയറിംഗുകൾ ഉണ്ടാകും ഈ ബെയറിംഗിനും ചില നഷ്ടങ്ങൾ ഉണ്ടാകും അതിനാൽ അവ എങ്ങനെ കുറയ്ക്കാം എന്നതിലേക്ക് നമ്മൾ വരാൻ പോകുന്നു എന്നാൽ അതിനുമുമ്പ് ഈ ഉയർന്ന വേഗതയുള്ള റോറ്റേഷൻ കാരണം ഉണ്ടാകുന്ന ഉയർന്ന ടെൻസൈൽ സമ്മർദ്ദങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു അതിനാൽ അതിന്റെ ഫലമായി സൃഷ്ടിക്കുന്ന സ്ട്രെസ് മെറ്റീരിയലിന് താങ്ങാനാകുന്ന പരമാവധി ടെൻസൈൽ ശക്തിയേക്കാൾ കുറവാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതിനാൽ ഇവിടെയുള്ള രണ്ടാമത്തെ സമവാക്യത്തിൽ കാണിക്കുന്നത് ഇതാണ് ഞാൻ പരമാവധി എനർജി ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റ് മാസ്സിൽ സംഭരിച്ചിരിക്കുന്ന എനർജി ഈ രൂപത്തിലെ പരമാവധി ടെൻസൈൽ ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഒരു യൂണിറ്റ് മാസ്സിൽമാസ്സ് നിങ്ങൾക്ക് സംഭരിക്കാൻ കഴിയുന്ന പരമാവധി എനർജി k യേക്കാൾ കുറവോ തുല്യമോ ആയിരിക്കണം ഇത് ഒരു സ്ഥിരാങ്കമാണ് കൂടാതെ സിഗ്മ m മെറ്റീരിയലിന്റെ ഫങ്ക്ഷൻ ആണ് ഇത് ആ വസ്തുവിന്റെ പരമാവധി ടെൻസൈൽ ശക്തിയാണ് ഇത് ആ മെറ്റീരിയലിന്റെ ഡെൻസിറ്റിയായ rho യെക്കാൾ പരമാവധി ടെൻസൈൽ ശക്തിയാണ് ഇത് നേരിട്ട് സോളിഡ് മെക്കാനിക്സിൽ നിന്നാണ് വരുന്നത് അതിനാൽ നമ്മൾ ഒരു മെറ്റീരിയൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് ഇതാണ് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഇതാണ് നമുക്ക് സംഭരിക്കാൻ കഴിയുന്ന പരമാവധി ഊർജ്ജത്തെ പരിമിതപ്പെടുത്തുന്നത് അല്ലാത്തപക്ഷം മെറ്റീരിയൽ ശിഥിലമാകാൻ പോകുന്നു കാരണം റോറ്റേഷനിലും മോഷനിലും അതിന് ടെൻസൈൽ സ്ട്രെസ്സിനെ നേരിടാൻ കഴിയില്ല ശരി അതിനാൽ ഇതുകൊണ്ടാണ് നിർമ്മാണത്തിന് പ്രാധാന്യം നൽകുന്നത് സ്പിന്നിംഗ് റോട്ടറിന്റെ മെറ്റീരിയലായി സ്റ്റീൽ1 അല്ലെങ്കിൽ കാർബൺ കോമ്പോസിറ്റ് കാർബൺ റൈൻഫോഴ്സ്ഡ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നു കാരണം അവ ശക്തവും ഭാരം കുറഞ്ഞതുമാണ് സ്റ്റീൽ ബ്ലോട്ടറുകൾക്ക് ആയിരക്കണക്കിന് ആർപിഎം വേഗതയിൽ റൊറ്റേറ്റ് കഴിയുമെന്ന് കാണുക എന്നാൽ കാർബൺ കംപ്പോസിറ്റ്സ് 60000 ആർപിഎം വരെ പോകാം നമ്മൾ ഫ്ലൈ വീലിനെ ക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ആപ്ലിക്കേഷനുകളിലൊന്ന് മെക്കാനിക്കൽ എഞ്ചിനീയർമാരയതിനാൽ തന്നെ ഐസി എഞ്ചിനുകളാണ് ഇക്കാലത്ത് നമ്മുടെ വീടുകളിൽ സാധാരണ കാണാത്ത ഫ്ലൈ വീൽ ഉപയോഗിക്കുന്ന മറ്റൊരു സ്ഥലം എന്നാൽ പക്ഷേ ഞാൻ വളർന്നപ്പോൾ പെഡലുള്ള തയ്യൽ മെഷീൻ എല്ലാ വീട്ടിലും സാധാരണമായിരുന്നു തയ്യൽ മെഷീനും ഒരു ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നു അതിനാൽ അത് ഐസി എഞ്ചിനുകളിൽ നമ്മൾ കണ്ട പൂർണ്ണമായും മെക്കാനിക്കൽ മാനുവൽ തരമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനുകൾ എന്ന നിലയിൽ സൈക്കിളിൽ നാല് സെഗ്മെന്റുകളും നാല് സ്ട്രോക്കുകളും ഉൾക്കൊള്ളുന്ന ഐസി എഞ്ചിനാണെന്ന് നമ്മൾ മനസ്സിലാക്കി സക്ഷൻ സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്ക് എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്നിവയെ നമ്മൾ പവർ സ്ട്രോക്ക് എന്നും പിന്നീട് എക്സോസ്റ്റ് സ്ട്രോക്ക് ഫോർ സ്ട്രോക്ക് എന്നും വിളിക്കുന്നു എന്നിരുന്നാലും ഈ നാലെണ്ണത്തിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ശരി അതിനാൽ മറ്റ് മൂന്ന് സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അതിനാൽ നമ്മൾ ഒരു ഫ്ലൈ വീൽ ഉപയോഗിക്കുന്നു അതിനാൽ പവർ സ്ട്രോക്ക് സമയത്ത് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈ വീലിലേക്ക് ഊർജം വിതരണം ചെയ്യപ്പെടുന്നു മറ്റ് മൂന്ന് സമയങ്ങളിൽ ട്രാൻസ്മിഷൻ സിസ്റ്റം വഴി ഊർജം വേർതിരിച്ചെടുക്കുന്നു അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് എന്നാൽ ഇത് ഒരു സുഗമമായ റൈഡ് ആയി നമുക്ക് തോന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ പവർ മോഷൻ പക്ഷേ അതാണ് നമ്മൾ കാണാത്തത് കാരണം ഇത് പവർ സ്ട്രോക്ക് സമയത്ത് അധിക എനർജി അബ്സോർബ് ചെയ്യുകയും മറ്റ് മൂന്ന് സമയങ്ങളിൽ അത് പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു ഫ്ലൈ വീൽ ആയതിനാൽ നമുക്ക് സുഗമമായ യാത്ര ലഭിക്കും ശരി അതിനാൽ അത് ഇത്തിരി വളഞ്ഞവഴി ആയിരുന്നു പക്ഷേ പ്രായോഗിക പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്ലൈ വീൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസിലാക്കാൻ ശ്രമിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കാണുന്നു അത് ഊർജ്ജ സംഭരണമാണ് അവിടെ ഐസി എഞ്ചിനുകളും ഊർജ്ജ സംഭരണമാണ് എന്നാൽ ഇവിടെ മറ്റൊരു ഉദാഹരണം കൂടി കാണുന്നു ഫ്ലൈ വീലുകൾക്ക് ധാരാളം ഊർജം സംഭരിക്കാൻ കഴിയില്ല എന്ന കാര്യം ഓർക്കുക എന്നിരുന്നാലും അത് ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിന് അധിക ഊർജം നൽകുമ്പോൾ അത് ഒരു സിസ്റ്റം സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാം അതുവഴി സിസ്റ്റം സുഗമമായി പ്രവർത്തിക്കും ശരി അതിനാൽ നമുക്ക് ഇവിടെ ചർച്ചയിലേക്ക് മടങ്ങാം നമ്മൾ മെറ്റീരിയലുകളെക്കുറിച്ചാണ്സംസാരിക്കുന്നത് അതിനാൽ സ്റ്റീൽ റോട്ടറുകൾക്ക്സ്റ്റീൽ rotors ആയിരക്കണക്കിന് ആർപിഎമ്മിൽ റൊറ്റേറ്റ് ചെയ്യാൻ കഴിയും നിങ്ങൾ ഒരു കാർ ഓടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിടട്ടുണ്ടെകിൽ നിങ്ങൾക്ക് ആർപിഎം കാണിക്കുന്ന ഒരു ഓഡോമീറ്റർ ഉണ്ട് പല കാറുകളിലും നമ്മൾ കാണുന്ന സാധാരണ ആർപിഎമ്മിലാണ് ഇത് നമ്മൾ 3000 4000 rpm ലേക്ക് പരിമിതപ്പെടുത്തുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ 2000 ന് അപ്പുറം പോയൽ അതിന്റെ എഞ്ചിൻ അൽപ്പം ശബ്ദമുണ്ടാക്കും അതിനാൽ സാധാരണ സുരക്ഷിതമായ ഡ്രൈവർമാർ 2000 2500 ന് അപ്പുറം പോകില്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് നമ്മൾ ഗിയർ മാറ്റുന്നു അതിനാൽ നമ്മൾ മുകളിലേക്ക് പോകില്ല എന്നിരുന്നാലും അതിലെ സ്റ്റീൽ റോട്ടറുകൾ മതിയാകും പക്ഷേ നമുക്ക് ശരിക്കും 20000 ആർപിഎം പോലെ പോകണമെങ്കിൽ 30000 50000 60000 അപ്പോൾ നമുക്ക് ഈ കൂടുതൽ സങ്കീർണ്ണമായ കാർബൺ കമ്പോസിറ്റസ് പോലെയുള്ള കൂടുതൽ ശക്തമായ വസ്തുക്കൾ ആവശ്യമാണ് അതിനാൽ അതായിരുന്നു മെറ്റീരിയൽ ഇപ്പോൾ ബെയറിംഗിന്റെ കാര്യമോ അതിനാൽ മെക്കാനിക്കൽ ബെയറിംഗുകൾ പ്രായോഗികമല്ല കാരണം ഫ്രിക്ഷൻ ഉണ്ട് ഫ്രിക്ഷൻ വേഗതയ്ക്ക് ആനുപാതികമാണ് അതിനാൽ നിങ്ങളുടെ ഫ്ലൈ വീലിനെ പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് മെക്കാനിക്കൽ ബെയറിംഗുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ കൈനറ്റിക് എനർജി നഷ്ടപ്പെടും അതിനാൽ നമ്മൾക്ക് മെക്കാനിക്കൽ എനർജി ഉപയോഗിക്കാൻ കഴിയില്ല നമ്മൾ ഉപയോഗിക്കുന്നത് മാഗ്നെറ്റിക് ഫീൽഡ് മാഗ്നെറ്റിക് ബെയറിംഗുകളാണ് അതിനാൽ ഉദാഹരണങ്ങളിൽ ഒന്ന് മഗ്നറ്റിക്മാണ് നമ്മൾ സംസാരിച്ച മഗ്നറ്റിക് ലെവിറ്റേഷൻ നിങ്ങൾക്കറിയാം അതിനാൽ മഗ്നറ്റിക് ലെവിറ്റേഷൻ ഇന്ന് ഉപയോഗിക്കുന്നു നമുക്ക് പോലും മാഗ്നറ്റിക് ലെവിറ്റേഷനിൽ ഓടുന്ന ട്രെയിനുകൾ ഉണ്ട് എന്തുകൊണ്ട് അങ്ങനെയാണ് ഫ്രിക്ഷൻ കുറയുന്നത് അതിനാൽ ഇവിടെയും ഉയർന്ന സാന്ദ്രതയുള്ള സംഭരണ സംവിധാനങ്ങൾ എനർജി സ്റ്റോറേജ് സംവിധാനങ്ങൾ എന്നിവയ്ക്കായി നമുക്ക് ഫ്ലൈ വീലുകൾ ഉപയോഗിക്കണമെങ്കിൽ കൂടുതൽ സമയം എനർജി സംഭരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് ചെയുന്നതേനാൽ ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നതാണ് നമ്മൾക്ക് മെക്കാനിക്കൽ ബെയറിംഗുകൾ ഉപയോഗിക്കാൻ കഴിയില്ല ഫ്ലൈ വീലിനെ പിന്തുണയ്ക്കുന്ന ഒരു മഗ്നറ്റിക് ഫീൽഡ്മഗ്നറ്റിക് field ഉള്ളിടത്ത് നമുക്ക് മഗ്നറ്റിക് ബെയറിംഗുകൾ ഉപയോഗിക്കാം അതിൽ കുറച്ച് കൂടി ഉൾപ്പെട്ടിരിക്കുന്നു നമ്മൾ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്നാൽ അതിനെ പിടിച്ചുനിർത്താൻ മറ്റ് എതിർ മഗ്നറ്റിക് ഫീൽടുകളും ഉണ്ട് അല്ലാത്തപക്ഷം നിങ്ങൾക്ക് ഒരു ദിശയിൽ മഗ്നറ്റിക്ഫീൽഡ് ഉണ്ടെങ്കിൽ അത് പറന്നു പോയേക്കാം പക്ഷേ നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് കടകാത്തിരികാം ഫ്ലൈ വീൽ പിടിക്കാൻ മാഗ്നറ്റിക് ലെവിറ്റേഷൻ സാങ്കേതികവിദ്യ പോലും സാധ്യമാണ് അങ്ങനെയെങ്കിൽ അധികം നഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ല ഞാൻ സംസാരിച്ച നഷ്ടത്തിന്റെ മറ്റൊരു ഉറവിടം എയർ ഫ്രിക്ഷനെ കുറിച്ചാണ് അതിനാൽ നിങ്ങൾക്ക് അത് പ്രവർത്തിക്കാൻ കഴിയും നമ്മൾ അത് വാക്വമിൽ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് തീർച്ചയായും പൂർണ്ണമായ വാക്വം ഒരിക്കലും സാധ്യമല്ല എന്നാൽ ഫ്ളൈ വീൽ ഒരു ഇവാക്വറ്റ് ചെയ്ത അറയിൽ വെച്ചാൽ എയർ ഫ്രിക്ഷൻഎയർ friction വളരെ കുറവായിരിക്കും ഒരു ഫ്ലൈ വീലിന് അതിന്റെ കൈനറ്റിക് എനർജി എത്രത്തോളം നിലനിർത്താനാകും ശരി നിങ്ങൾക്ക് മാഗ്നെറ്റിക് ബെയറിംഗുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാക്വം അവസ്ഥയോട് അടുത്ത് നിലനിർത്താൻ കഴിയുമെങ്കിൽ അത് നിലനിർത്താൻ കഴിയും ഏകദേശം 6 മാസത്തേക്ക് ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയും അത് കാണിച്ചിരിക്കുന്നു ശരി അതിനാൽ ഊർജ്ജ സംഭരണത്തിനായി നിങ്ങൾ ഫ്ലൈ വീലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ സംഭരണ കാലയളവ് വളരെ വലുതായിരിക്കും ഇപ്പോൾ ഞാൻ അവസാനമായി ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് പരാജയപ്പെട്ടാൽ എന്താണ് പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യും ഉയർന്ന ടെൻസൈൽ ശക്തിയും മറ്റും ഉപയോഗിച്ച് ഉയർന്ന ടെൻസൈൽ ശക്തിയെ നേരിടാൻ കഴിയുന്ന ഒരു പ്രത്യേക മെറ്റീരിയലിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് എല്ലാം ശരിയാണ് പക്ഷേ അത് പരാജയപ്പെട്ടാൽ എന്തുചെയ്യണം കാരണം നമ്മൾ വളരെ ഉയർന്ന വേഗതയിൽ റൊറ്റേറ്റിങ് ചെയുന്ന ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ശരി അതിനാൽ മെറ്റീരിയൽ നിർമ്മാണത്തിനും വേണ്ടിയുള്ള ഡിസൈൻ ആണ് ഇത് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാൽ മെറ്റീരിയൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് തകരുകയോ പൊട്ടുകയോ ചെയ്താൽ ഉടനെ അത് ചെറിയ കഷണങ്ങളായി വിഘടിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ശരിക്കും ഉയർന്ന വേഗതയിൽ ഒരു വലിയ ചങ്ക് ഇല്ല അത് ആ ഉയർന്ന വേഗതയിൽ എന്തെങ്കിലും തട്ടിയാൽ മാരകമായേക്കാം അതിനാൽ അത് ചെയ്യുന്നത് ഉടൻ തന്നെ ചെറിയ കഷണങ്ങളായി ശിഥിലമാകുകയും തുടർന്ന് നിങ്ങൾക്ക് ഹോസ്സിങ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ കഷണങ്ങൾ ഭവന ഭിത്തിയിൽ ചെന്ന് മുട്ടുമ്പോൾ ബലം വേണ്ടത്ര ശക്തമല്ല കാരണം മാസ്സ് ചെറുതാണ് അങ്ങനെയാണ് നമ്മൾ സുരക്ഷിതമായി സൂക്ഷിക്കുക അതിനാൽ ഫ്ലൈ വീൽ എന്താണെന്ന് നമ്മൾ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ട് ആരംഭിച്ചു അതിനാൽ ഫ്ലൈ വീൽ ഒരു റൊറ്റേറ്റിങ് അംഗമാണ് അത് തിരിക്കാനും അക്സെലെരേറ്റ് അല്ലെങ്കിൽ അധിക എനർജി നൽകിക്കൊണ്ട് അടിസ്ഥാനപരമായി അംഗുലർ സ്പീഡ് വർദ്ധിപ്പിക്കാനും കഴിയും അധിക വൈദ്യുതി ഉൽപ്പാദനം ഇല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇത് ചെയ്യുന്നു അതിനാൽ ഫ്ലൈ വീലിലേക്ക് എനർജി നൽകുന്ന ഒരു മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കുന്നു അതിനാൽ കൈനറ്റിക് എനർജി ഉയരുന്നു കാരണം അതിന്റെ അംഗുലർ സ്പീഡ് വർദ്ധിക്കുന്നു ഒരു നിശ്ചിത ആർപിഎമ്മിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത് മെറ്റീരിയലിന്റെ ടെൻസൈൽ ശക്തിയാൽ നിർണ്ണയിക്കപ്പെടും അതിനാൽ നൽകിയിരിക്കുന്ന രൂപകൽപ്പനയ്ക്ക് പരമാവധി അംഗുലർ സ്പീഡ് എത്രയാണ് മോട്ടോർ വഴി അധിക പവർ നൽകുന്നത് നമ്മൾ നിർത്തും ഫ്ലൈ വീൽ ഒരു കേസിംഗിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് സാധാരണയായി ഒഴിപ്പിക്കപ്പെടുന്നു അതിനാൽ എയർ ഫ്രിക്ഷൻഎയർ friction കുറയുന്നു കൂടാതെ ബെയറിംഗുകൾ പ്രത്യേക മാഗ്നെറ്റിക് ബെയറിംഗുകളാണ് അതിനാൽ ബെയറിംഗ് നഷ്ടവും വളരെ കുറവാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ ഒരു നിശ്ചിത rpm ൽ കറങ്ങുമ്പോൾ കുറഞ്ഞ എനർജി അല്ലെങ്കിൽ ർപിഎം നഷ്ടത്തോടെ അത് കറങ്ങിക്കൊണ്ടിരിക്കും അടുത്തതായി സംഭവിക്കുന്നത് തിരക്കുള്ള സമയത്താണ് എനിക്ക് ഈ അധിക വൈദ്യുതി ആവശ്യമുള്ളപ്പോൾ ഞാൻ ഈ ഫ്ലൈ വീലിലേക്ക് ഒരു ജനറേറ്ററിന്റെ ഷാഫ്റ്റ് അറ്റാച്ചുചെയ്യുന്നു അതിനാൽ സംഭവിക്കുന്നത് ഫ്ളൈ വീലിന്റെ കൈനറ്റിക് എനർജി ജനറേറ്ററിനെ തിരിക്കാനും അങ്ങനെ വൈദ്യുതി ഉത്പാദിപ്പിക്കാനും ഉപയോഗിക്കുന്നു തീർച്ചയായും അത് ജനറേറ്റർ തിരിക്കുമ്പോൾ അതിന്റെ വേഗത കുറയാൻ പോകുന്നു അതിനാൽ ആർപിഎം ആ ω2 ൽ നിന്ന് കുറച്ച് താഴ്ന്ന മൂല്യത്തിലേക്ക് താഴാൻ പോകുന്നു ഒടുവിൽ ω1 ലേക്ക് അല്ലെങ്കിൽ അതിലും താഴെയാണെന്ന് നമുക്ക് പറയാം അറിയില്ല പക്ഷേ അങ്ങനെയാണ് നമ്മൾ പുറത്തുവിടുന്ന എനർജിയുടെ അളവ് സൃഷ്ടിക്കുന്നത് അതിനാൽ ഫ്ലൈ വീലുകൾ സാധാരണയായി വളരെ ഉയർന്ന ഊർജ്ജ സംഭരണത്തിനായി ഉപയോഗിക്കാറില്ല എന്നാൽ ചെറിയ പൊട്ടിത്തെറികളിൽ ഇതിന് ഉയർന്ന പവർ നൽകാൻ കഴിയും അതിനാൽ ഇത് സാധാരണയായി സിസ്റ്റത്തെ സ്ഥിരപ്പെടുത്താനും ചെറിയ സമയത്തേക്ക് അധിക എനർജി നൽകാനും ഉപയോഗിക്കുന്നു നമുക്ക് സാധാരണയായി ഒരു സോളിഡ് ഡിസ്കോ സിലിണ്ടറോ ഇല്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ അതിന്റെ നിർമ്മാണത്തെക്കുറിച്ചും സംസാരിച്ചത് പകരം ഔട്ടർ പേരിഫെറിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന മാസ്സുള്ള ഒരു നിർമ്മാണത്തിലേക്ക് പോകുക അതിനാൽ അങ്ങനെ സംഭവിക്കുന്നതെന്തനാൽ നമുക്ക് ഉയർന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാകാം കാരണം സിലിണ്ടറോ ഡിസ്കോ സോളിഡ് ആയിരിക്കുമ്പോൾ അത് ½ Mr2 എന്നതിനുപകരം M r2 ആയി പോകുന്നു ഡിസൈൻ വ്യൂപോയിന്റിൽ നിന്ന് മറ്റൊന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഭാരം കുറഞ്ഞ മാസ്സ് ഉണ്ടായിരിക്കുക കാരണം അത് എളുപ്പമാണ് പ്രത്യേകിച്ചും നമ്മൾ മഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്നെ magnetic field സ്ട്രെങ്ത് കുറിച്ചാണ് സംസാരിക്കുന്നതേകിൽ മാസ്സ് കുറവായതിനാൽ മഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്നെ കുറവായതിനാൽ ബെയറിംഗ് ഹോൾഡ് ഫ്ലൈ വീൽ അതിന്റെ സ്ഥാനത്ത് പിടിക്കുന്നത് എളുപ്പമായിരിക്കും കാരണം മാസ്സ് കുറവായതിനാൽ നഷ്ടപരിഹാരം നൽകാനും ഉയർന്ന ഊർജ്ജ സംഭരണം നേടാനും നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം ഫ്ലൈ വീലുകളിൽ ശരിക്കും ഉയർന്ന ആർപിഎംറപിഎംസ് വരെ പോകാൻ ഇപ്പോളത്തെ ടെക്നോളജി നമ്മെ സഹായിക്കുന്നു അവസാനത്തേത് പക്ഷേ ഏറ്റവും കുറഞ്ഞതല്ലാത്ത കാര്യം രൂപകൽപ്പനയാണ് അത് പരാജയപ്പെടുകയാണെങ്കിൽ അത് ചെറിയ കഷണങ്ങളായി വിഘടിക്കുന്നു അതിനാൽ നമ്മൾക്ക് ശരിക്കും അപകടകരമായ അവസ്ഥ ഉണ്ടാകില്ല അത്രയും വേഗത്തിൽ പറക്കുന്ന വലിയ മെറ്റീരിയലിന്റെ കഷണങ്ങൾ നമുക്കില്ല അങ്ങനെ ഫ്ലൈ വീലിനെ കുറിച്ചുള്ള നമ്മളുടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തക്ലാസ്സിൽ ഊർജ്ജ സംഭരണത്തിനുള്ള മറ്റൊരു മാർഗ്ഗം നമ്മൾ നോക്കും